ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുരന്ത പശ്ചാത്തലത്തിൽ സാംസ്കാരികമായി പ്രതികരിക്കുന്ന നിർമ്മിത ചുറ്റുപാടുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ സാംസ്കാരികമായി പ്രതികരിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാംസ്കാരിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനതത്വങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും അവ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിർമ്മിച്ചവയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ദുരന്തസമയത്ത് ദുരന്തത്തിന് മുമ്പുള്ള സന്ദർഭത്തിൽ നിന്ന് അവ എങ്ങനെ മാറുന്നുവെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ദുരന്താനന്തര സന്ദർഭവും ഒരു ദീർഘകാല പ്രക്രിയയാണ് അതിനാൽ ഇവിടെ സംസ്കാരങ്ങൾ ദുരന്തങ്ങൾ വാസസ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പോൾ ഒലിവറിന്റെPaul Olivers ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിർമ്മിച്ച സൃഷ്ടിയുടെ സംഭാവനയെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് സംസ്കാരങ്ങൾ ദുരന്തങ്ങൾ വാസസ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നാലാം ഭാഗത്തിൽ അദ്ദേഹം നിരവധി കേസുകൾ കൊണ്ടുവരുന്നു വീണ്ടെടുക്കൽ പ്രക്രിയയിൽ അവഗണിക്കപ്പെട്ടതെങ്ങനെ അതിന്റെ ഫലമായി ഏത് തരത്തിലുള്ള ഇടങ്ങൾ നിർമ്മിക്കപ്പെടുന്നു പ്രതികരണ സാഹചര്യം എന്ന നിലയിൽ ഏത് തരത്തിലുള്ള അർത്ഥങ്ങൾ വികസിപ്പിച്ചെടുത്തു വികസനവും സംസ്കാരവും ഈ പ്രക്രിയയിൽ പരസ്പരം ബന്ധമില്ലാത്തത് ഇവിടെയാണ് തമിഴ്നാട്ടിലെ സുനാമി വീണ്ടെടുക്കൽ പ്രക്രിയയിലും സമാനമായ ഉദാഹരണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ കാര്യം അതിനാൽ ഇന്ന് ഞങ്ങൾ തുർക്കിയിലെ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലെ സ്ഥലങ്ങളെക്കുറിച്ചും അടുത്തിടെ നടന്ന ഹുദ്ഹുദ് ചുഴലിക്കാറ്റിനെ കുറിച്ചും കവർ ചെയ്യും അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ചിത്രം കപ്പഡോഷ്യയിലും തുർക്കിയിലെ മധ്യ ആൻടോളിൻ മേഖലയിലുമാണ് ഈ കൊടുമുടികളുടെ വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയുണ്ട് ആൻടോളിൻ പ്രദേശത്ത് വ്യാപിച്ചുകിടക്കുന്ന ട്യൂഫ പാറയുടെ കൊടുമുടികൾ ഇവ അടിസ്ഥാനപരമായി രൂപപ്പെട്ടത് ലാവാ പൊടിയുടെ പുരാതന നിക്ഷേപത്തിൽ നിന്നാണ് വായുവിലെ എക്സ്പോഷർ കാരണം ഈ മൃദുവായ പാറ കഠിനമാവുന്നു അകത്തളങ്ങളിൽ ഉറപ്പുള്ള ഭിത്തികൾ ഉണ്ടായിരിക്കാം കല്ല് ചില ശൂന്യതകളാൽ കൊത്തിയെടുക്കാം അത് യഥാർത്ഥത്തിൽ ഒരുതരം താമസസ്ഥലമായി മാറുന്നു അതിനാൽ വാസ്തവത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും തുർക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ തുർക്കിയിലൂടെ കടന്നുപോകുന്ന ആഗോള തകരാർ ഭൂകമ്പത്തിന് സാധ്യതയുള്ള ലോകത്തിലെ ഫോൾട് ലൈൻ ആണ് ഈ തുഫ കൊടുമുടികൾ വളരെ മൃദുവായ പാറയാണ് അവ പലപ്പോഴും തകരുകയും നിരവധി വാസസ്ഥലങ്ങൾ നശിപ്പിക്കുകയും ഗുരുതരമായ ജീവഹാനി വരുത്തുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ കൊടുമുടികളിൽ സംഭവിക്കുന്ന പതിവ് കേടുപാടുകൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെയാണ് വാസ്തവത്തിൽ ഈ പ്രകൃതിദത്ത രൂപങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് ജനങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ് യഥാർത്ഥത്തിൽ ഗോറെം അവനോസ് റോഡിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള പഴയ ഗ്രീക്ക് പട്ടണത്തിലെ കാവുസിൻ ഗ്രാമത്തിൽ ചില കേസ് പഠനങ്ങളുണ്ട് അതിനാൽ ഇവിടെ ഇത് ഒരുതരം വലിയ പർവതമാണ് അത് ധാരാളം വാസസ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നു അത് ഒരു പർവതം പോലെ ഉൾച്ചേർന്ന സങ്കീർണ്ണമായ വാസസ്ഥലങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എല്ലാ വാസസ്ഥലങ്ങളും വളരെ ജൈവ സ്വഭാവമുള്ള പാർപ്പിടങ്ങളാണെന്നു നിങ്ങൾക്ക് കാണാൻ കഴിയുo അടിക്കടിയുള്ള ഭൂകമ്പങ്ങൾ കാരണം നാശങ്ങൾ സംഭവിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ വായുവിന്റെയും പാറകളുടെയും സമ്പർക്കം മൂലമുള്ള മണ്ണൊലിപ്പ് മൃദുവായ പാറകൾ താഴേക്ക് വീഴുന്നു അവിടെയും ഭൂകമ്പസമയത്തും ധാരാളം നാശങ്ങൾ സംഭവിക്കുന്നു തീർച്ചയായും ഈ കമ്മ്യൂണിറ്റികൾക്ക് തിരികെ പോകാനും ചില സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കാനും അവസരം നൽകിയിട്ടുണ്ട് എന്നാൽ ചിലർ തിരികെ പോകുന്നത് നിഷേധിച്ചു പല സമുദായങ്ങളും തിരിച്ചുപോകുന്നത് നിഷേധിച്ചു അവർ തിരികെ വന്നു നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഗ്രാമത്തിന്റെ പരിസരത്ത് താമസിക്കാൻ അവർ ശ്രമിക്കുന്നു ഈ സ്ഥലം ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നും അപകടമുണ്ടെന്നും അറിഞ്ഞിട്ടും അവർ ഈ അരികിൽ ജീവിക്കാൻ പോകുന്നു എന്നിട്ടും എന്തിനാണ് ഈ ആളുകൾ ഇവിടെ വന്ന് ഇവിടെ താമസിച്ചുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സമൂഹങ്ങൾ ചിന്തിച്ചത് സുരക്ഷയുടെ കാര്യം മാത്രമല്ല എന്നതാണ് അവരുടെ ഉപജീവനത്തിന്റെ മറ്റൊരു വശം കൂടിയുണ്ട് അത് അവരെ യഥാർത്ഥത്തിൽ അതിലേക്ക് ആകർഷിച്ചു അതുകൊണ്ടാണ് ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായത്ഇത് യഥാർത്ഥത്തിൽ ഈ ആളുകളെ തിരികെ കൊണ്ടുവന്നു അവർ മുകളിൽ പറഞ്ഞ പ്രദേശങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നതിനുപകരം അവർ അടിവാര പ്രദേശത്തും അവർക്ക് ചില ഭക്ഷണശാലകളോ ചിലതരം സാമ്പത്തിക സ്രോതസ്സുകളോ ഉള്ളിടത്ത് താമസിക്കാൻ തുടങ്ങി അവിടെയാണ് ടൂറിസ്റ്റ് സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന വശം ഉപജീവനമാർഗവും സാംസ്കാരിക വിഭവത്തിന്റെ ഭാഗമാണെന്ന് സമുദായങ്ങൾ എങ്ങനെ വിശ്വസിച്ചു അതുപോലെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ മറ്റൊരു കേസിലേക്ക് പോകും 1968 ൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി അത് സിസിലി റെസ്റ്റോറന്റ് തകർത്തു ഏകദേശം 1 ലക്ഷം ആളുകളെ ഭവനരഹിതരാക്കി ഗിബെല്ലിന എന്ന ഒരു ചെറിയ നഗരമുണ്ട് ബെലീസ് താഴ്വരയിലെ ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത് ഇത് പൂർണ്ണമായും നിലംപൊത്തി ഇടയന്മാരും കർഷകത്തൊഴിലാളികളും അടങ്ങുന്ന സമൂഹം താൽക്കാലിക ടെന്റ് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇപ്പോൾ ഭൂകമ്പ ബാധിത പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾവ്യക്തമായും മുഴുവൻ പ്രശ്നവും നിങ്ങൾക്കറിയാവുന്ന ഒരു മാസ്സീവ് സീൻ സൃഷ്ടിക്കുന്നു നിങ്ങൾക്കറിയാമോ അത് ജനങ്ങൾക്ക് വളരെ വിനാശകരമായ ഒരു രംഗമാണ് അവർ എങ്ങനെയെങ്കിലും ഒരു ദുരന്തത്തിന്റെ ഉടനടി ആഘാതത്തിൽ അവർ നിങ്ങളെ അന്വേഷിക്കാൻ പ്രവണത കാണിക്കുന്നു ആദ്യം തങ്ങളെത്തന്നെ സംരക്ഷിക്കുകയും ഉടനടി ഒരു അഭയം തേടാൻ ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെയാണ് അവർ താൽക്കാലിക ടെന്റ് ക്യാമ്പുകളിലേക്ക് മാറിയത് എന്നാൽ അക്കാലത്ത് ആ പ്രത്യേക ഗിബെല്ലീനയുടെ മേയർ കോറയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ദുരന്തങ്ങളെ ശാപം എന്നതിലുപരി ഒരു അവസരമായി എങ്ങനെ എടുക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാരണം ദുരന്തങ്ങൾ മാറ്റത്തിന്റെ ഏജന്റുമാരാണ് അതിനാൽ എന്തുകൊണ്ട് ഇത് ഒരു സുവർണ്ണാവസരമായി കണക്കാക്കികൂടാ ഈ ആധുനിക തത്ത്വചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു സമൂഹം കെട്ടിപ്പടുക്കാം അതിനാൽ അദ്ദേഹം ചെയ്തത് ഗിബെലിനയുടെ നഗര പുനർനിർമ്മാണത്തിലൂടെ സാംസ്കാരിക നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രാഷ്ട്രീയക്കാരുടെ വാസ്തുശില്പികളുടെ ബുദ്ധിയുടെ ദർശകരുടെ വിഭാവനം ചെയ്ത ഇടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഈ ഇടം നഗര ഇടം അത് ആധുനികതയുടെ ദർശനങ്ങൾ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നിവയെ അവർ എങ്ങനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ബാക്കിയുള്ളവർ പരിഗണിക്കുന്ന ഒരു പ്രദേശത്തിന്റെ വിമോചനത്തിന്റെ പ്രതീകമാണ് അതിനാൽ ഇത് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഒരു മാതൃകയാകാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു ഷോകേസ് മോഡലാണ് ആധുനികത ഇങ്ങനെയാണെന്ന് കാണിക്കാൻ കഴിയും സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ആധുനിക ധാരണയാണ് മറ്റ് നഗരങ്ങൾക്ക് ഇത് എങ്ങനെ ഒരു മാതൃകയാകാം പ്രദേശത്തിനകത്തും എന്തെങ്കിലുമൊക്കെ ബാധിക്കപ്പെടുമ്പോൾ സ്ഥലനിർമ്മാണ പ്രക്രിയയിലേക്ക് ധാരാളം ചിന്തകളും ദർശനങ്ങളും കൊണ്ടുവരാൻ ആരെങ്കിലും ശരിക്കും പ്രവർത്തിക്കുമ്പോൾ ഇത് മറ്റു നഗരങ്ങൾക്ക് ഒരു മാതൃകയാകും ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരു ലബോറട്ടറിയായി മാറുന്നു ഒരു വലിയ ലബോറട്ടറി വിവിധ കലാകാരന്മാരെ ആകർഷിക്കുന്നു വിവിധ വാസ്തുശില്പികളും വിവിധ ബുദ്ധിജീവികളും ഇറ്റലിയുടെ നാനാഭാഗത്തുനിന്നും പുതിയ രൂപത്തിലുള്ള കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളുടെ ലബോറട്ടറി നിർമ്മിക്കുന്നതിന് സംഭാവന നൽകുന്നു അതിനാൽ ഒരു കലയും വാസ്തുവിദ്യയും എങ്ങനെ ഒത്തുചേരാം നമുക്ക് എങ്ങനെ മുഴുവൻ സമൂഹത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും അവർക്ക് എങ്ങനെ നിങ്ങളെ അറിയാൻ കഴിയും ഒരു ദുരന്തത്തിന്റെ ഇത്തരത്തിലുള്ള അനന്തരഫലങ്ങൾ കൊണ്ടുവരികയും അവർക്ക് എങ്ങനെ സാധാരണ നിലയിലേക്കും അതൊരു ആധുനിക ധാരണയിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിയും അതിനാൽ അവർ ചെയ്തത് അവർ ധാരാളം കലാകാരന്മാരെ കൊണ്ടുവന്നു അവർ ധാരാളം പ്ലാസകളും പിയാസകളും വികസിപ്പിച്ചെടുത്തു ടോറെ സിവിക്കയുമായുള്ള കമ്മ്യൂണിറ്റി പ്ലാസയായ പിയാസ ഡെൽ കമ്യൂൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊരു തരം സിവിക് പ്ലാസയാണ് ഇവിടെലുഡോവിക്കോ ക്വാറോണിയുടെ പുതിയ കത്തീഡ്രൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ വിവിധ കലാകാരന്മാർ അവരുടെ സ്വന്തം ആശയങ്ങളും ചെറിയ കലാസൃഷ്ടികളും പ്ലാസകളുടെ രൂപത്തിൽ ചതുരങ്ങളുടെ രൂപത്തിൽ സ്മാരകങ്ങളുടെ രൂപത്തിൽ കെട്ടിടങ്ങളുടെ രൂപത്തിൽ ഭവനത്തിന്റെ രൂപത്തിൽ സ്ഥാപിക്കാൻ വന്നിട്ടുണ്ട് പുതിയ വാസസ്ഥലങ്ങളുടെ കാര്യത്തിൽ അവർ യഥാർത്ഥത്തിൽ ഏകദേശം 50000 ആളുകളെയാണ് ലക്ഷ്യമിട്ടത് എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ 5000 ആളുകൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ കൂടാതെ ഭൂരിഭാഗം ഭവനങ്ങളും അവർക്ക് ഈ മുൻവശത്തെ പൂന്തോട്ടങ്ങളുണ്ടെന്നും അവർക്ക് ഈ വേർപെടുത്തിയ പാർപ്പിടങ്ങളും തെരുവ് മുഴുവൻ ഉണ്ടെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന അയൽപക്കത്തിൽ നിന്ന് വേർപെടുത്തുന്ന വിശാലമായ തെരുവ് ലേഔട്ടുകളായിരുന്നു അത് അവയെല്ലാം ഒരു റോ ഹൌസ് വശം പോലെയാണ് എന്നാൽ ഈ പ്രക്രിയയിൽ ആ സാമുദായിക ഇടപെടൽ കാണാതെ പോകുന്നു കാരണം മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ അവർക്ക് ഈ വരാന്ത സങ്കൽപ്പങ്ങളുണ്ട് വൈകുന്നേരങ്ങൾ പുറത്ത് ഇരുന്നു അവർ പരസ്പരം ചാറ്റ് ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ തെരുവിന്റെയും ഫുട് പാത്തിന്റെയും പാർക്കിംഗിന്റെയും മുൻവശത്തെ പൂന്തോട്ടത്തിന്റെയും സ്കെയിൽ മുഴുവൻ സ്കെയിലും സാമൂഹിക ഇടപെടൽ എടുത്തുകളഞ്ഞു വാസ്തവത്തിൽ സോഷ്യലൈസ് ചെയ്യുന്നതിനുപകരം അത് ഉപയോക്താക്കളെ ഒറ്റപ്പെടുത്തലും വേർതിരിക്കലും വളർത്തിയെടുത്തു അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് അവസാനിച്ചത് ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്ലാസകളാണ് നിങ്ങൾ ആരെയെങ്കിലും കാണുന്നുണ്ടോ ഇവിടെ ജനസംഖ്യാപരമായ ധാരണ 5000 ത്തിൽ നിന്ന് വളരെയധികം പ്രചരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ 50000 ത്തെ ലക്ഷ്യം വച്ചിട്ടുണ്ടെന്നും അതിനനുസരിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാം ഇന്ന് നിങ്ങൾ കാണുന്നത് ശൂന്യമായ പ്ലാസകളും ശൂന്യമായ കത്തീഡ്രലുകളുമാണ് അതിനാൽ എല്ലാം ഒരുമിച്ച് ശൂന്യമാണ് നഗരത്തിന്റെ പുനർനിർമ്മാണവും കലാസൃഷ്ടിയും തമ്മിലുള്ള ബന്ധം പ്രദേശവാസികൾക്കും കുറച്ച് നാട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ട് കലയ്ക്ക് യഥാർത്ഥത്തിൽ ആളുകൾക്ക് എങ്ങനെ പ്രോത്സാഹനങ്ങൾ കൊണ്ടുവരാൻ കഴിയും അവർക്ക് അവരെ എങ്ങനെ പങ്കാളിത്ത രീതികളിൽ ഉൾപ്പെടുത്താം നിങ്ങൾക്കറിയാം കലയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഈ നൂതനമായ മാർഗ്ഗം അവർക്ക് എങ്ങനെ മനസ്സിലാക്കാനാകും ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ നിരവധി ശിൽപശാലകൾ നടത്തിയിട്ടുണ്ട് പ്രാദേശിക പൌരന്മാരുമായും യഥാർത്ഥത്തിൽ കലാപരമായ ലാൻഡ്സ്കേപ്പിന്റെയും നഗരത്തിന്റെയും സഹസൃഷ്ടിക്കായി സജീവമായ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുപകരം ഈ വിടവ് നികത്താൻ കലാകാരന്മാരെ വിട്ട് സ്ഥാപനങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൈ കഴുകി അതിനാൽ ആ പ്രക്രിയയിൽ സംഭവിച്ചത് ധാരാളം പങ്കാളിത്ത പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലും പൊതുജനങ്ങളെ ഇടപഴകുന്നതിനും ക്രമേണ ധനസഹായം നൽകുന്നതിനും ഒരു വ്യാപ്തിയുണ്ട് ഒന്നുകിൽ ഫണ്ടിംഗ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനാ സ്ഥാപനങ്ങൾ അവർ കൈ കഴുകാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ കലാസൃഷ്ടികൾ എന്തുകൊണ്ട് നിങ്ങൾ തുടരരുന്നില്ല കൂടാതെ ഈ വിടവ് നികത്താൻ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടായിട്ടുo കെടുകാര്യസ്ഥത കാരണം അടിസ്ഥാന സൌകര്യങ്ങൾ പലതും പൂർത്തിയാകാതെ കിടക്കുകയാണ് കൂടാതെ ചില രാഷ്ട്രീയ അഴിമതികളും നഗരത്തെക്കുറിച്ചും അവർ വിഭാവനം ചെയ്ത കാര്യങ്ങളും അവർക്ക് കിട്ടിയത് തികച്ചും നിശ്ശബ്ദമായ ഒരു നഗരത്തിന്റെ പൂർണ്ണമായ ഒരു വിസ്താരമാണ് കൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആൽബെർട്ടോ ബുറി രൂപകൽപ്പന ചെയ്ത ക്രെറ്റോയാണ് ഇത് ഏകദേശം 12 ഹെക്ടർ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഗ്രാമം മുഴുവൻ നശിച്ചുപോയ പഴയ ഗ്രാമമാണിത് ഇപ്പോൾ അവർ ചെയ്തത് അവർ ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് മൂടിയിരുന്നു ഈ ഇടവഴികൾ യഥാർത്ഥത്തിൽ ആ ഗ്രാമത്തിന്റെ നിലവിലുള്ള തെരുവ് ശൃംഖലയാണ് ഒരു തരം ബ്ലോക്ക് മോഡലിൽ ഉള്ളതിനാൽ ആ ഗ്രാമത്തിന്റെ അസ്ഥികൂടത്തിന്റെ ഓർമ്മ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ കലാസൃഷ്ടിയുടെ വ്യാപ്തിയെക്കുറിച്ച് ഒരാൾക്ക് ഊഹിക്കാൻ കഴിയും ഇത് ഒരുതരം കോൺക്രീറ്റ് കാടാണെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ ഇതിനെ വിളിക്കുന്നു കലയുടെ പേരിൽ 12 ഹെക്ടർ ഭൂമി കോൺക്രീറ്റ് ചെയ്തു അത് ഒരു ഓർമ്മയായി മാറി അതിനാൽ ആളുകൾക്ക് ശിൽപത്തിലൂടെ നടക്കാനും നാവിഗേറ്റ് ചെയ്യാനും ഈ തെരുവ് ശൃംഖല സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നു അതിനാൽ അവർക്ക് സ്വയം ഓറിയന്റുചെയ്യാൻ കഴിയും അവർ എവിടെയാണ് അവർ എവിടെയാണ് താമസിച്ചിരുന്നത് മുഴുവൻ ഓർമ്മകൾക്കും അർഹതയുണ്ടെന്ന് അവർക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്നാൽ നിങ്ങൾക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ യഥാർത്ഥത്തിൽ നിരീക്ഷിക്കുന്നത് മുഴുവനും ഇപ്പോൾ നിശബ്ദമായ ഒരു സ്ഥലമാണ് നിർഭാഗ്യവശാൽ പുനർനിർമ്മിച്ച ക്രെറ്റോയും ഗിബെല്ലീന നുവോവയും പൊതുവായ കാര്യം നിശബ്ദതയാണ് എന്തിനാണ് നിശബ്ദത ഈ നിശ്ശബ്ദത കൊണ്ടുവന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ആദ്യത്തേത് ഭൂതകാലത്തിന്റെ അവശിഷ്ടമായി പുരാവസ്തുഗവേഷണത്തിന്റെ പുരാവസ്തു സിമന്റിന്റെ മറവിൽ പിടിച്ചെടുക്കപ്പെട്ട ക്രെറ്റോ അതിനാൽ സിമന്റ് കട്ടകൾക്കായി പൂർണ്ണമായും പഠിച്ച ഒരു ഓർമ്മയായി അവർ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടാമത്തേത് വീടുകൾ ചതുരങ്ങൾ സ്മാരകങ്ങൾ പൂർത്തിയാകാത്ത അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സമമിതിയാണ് രണ്ടാമത്തേത് യഥാർത്ഥത്തിൽ ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ച വീടുകളാണോ പക്ഷേ ഇപ്പോഴും ധാരാളം ആളുകൾ ഇവിടെ താമസിക്കുന്നില്ല മാത്രമല്ല ഗിബെലിനയിൽ കൂടുതൽ സാമൂഹിക വശങ്ങളില്ല നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഉപജീവനമാർഗത്തെക്കുറിച്ചും പറയുന്നു അവർക്ക് എങ്ങനെ അവരുടെ ഉപജീവന വശങ്ങൾ അതിൽ നിന്ന് ലഭിക്കും മറ്റു പല ഘടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മൾ പഠിക്കുന്ന ഒരു സ്കെയിൽ ഹൈപ്പ് ചെയ്യപ്പെട്ടു അതിന്റെ ഫലമായി നമ്മൾ കാണുന്നത് അടിസ്ഥാന സൌകര്യങ്ങളുടെ ഇൻപുട്ട് തെറ്റായി കൈകാര്യം ചെയ്യപ്പെടുകയും പൂർത്തിയാകാത്ത ജോലികൾ തടസ്സപ്പെടുകയും ചെയ്തുഅങ്ങനെ ആ രീതിയിൽ പദ്ധതിയുടെ സൌന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ എന്നാൽ യഥാർത്ഥത്തിൽ അത് മറ്റൊരു വൃത്തികെട്ട പൂർത്തിയാകാത്ത ഭാഗങ്ങൾ സൃഷ്ടിച്ചു അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ചില നിയമവിരുദ്ധ ഇടങ്ങളും ഇത് വികസിപ്പിച്ചെടുത്തു ഫണ്ടിംഗ് ദുരുപയോഗം കാരണം ആളുകൾ ഈ പൂർത്തിയാകാത്ത കലാസൃഷ്ടികളോ പൂർത്തിയാകാത്ത പ്രോജക്റ്റുകളോ ഉപേക്ഷിച്ചു സ്ഥാപനപരമായ ഈ കലാകാരന്മാരെ അവർ വീക്ഷിച്ച ജോലിയും രീതിയുമുണ്ട് അതിനാൽ പ്രാദേശിക സാംസ്കാരിക ആവശ്യങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയും ഹ്രസ്വകാല ഇടത്തരം ദീർഘകാല പൊരുത്തപ്പെടുത്തൽ പ്രക്രിയ എങ്ങനെയാണെന്നും ഈ മുഴുവൻ കാര്യവും യഥാർത്ഥത്തിൽ നമ്മെ വെളിപ്പെടുത്തുന്നു അതിനാൽ ഒരാൾക്ക് എങ്ങനെ ഇൻക്രിമെന്റാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാനാകും നിങ്ങൾക്ക് അറിയാവുന്ന വർദ്ധനവിനെക്കുറിച്ച് ഒരാൾ ചിന്തിച്ചിട്ടില്ല അതിനാൽ ഇതേ പ്രോജക്റ്റ് കൂടുതൽ വർദ്ധിപ്പിച്ച തലത്തിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് മികച്ച വിജയമാകുമായിരുന്നു ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഒരു അഭയം നൽകുമ്പോൾ എല്ലായ്പ്പോഴും രണ്ട് കാര്യങ്ങൾ ഉണ്ട് അവ വളരെ വ്യത്യസ്തമാണ് ഒന്ന് ഉള്ളവനും ഇല്ലാത്തവനും ശക്തരും ശക്തിയില്ലാത്തവരും ദുരിതാശ്വാസ സംഘടനകളും ദുരന്തബാധിതരും അതിനാൽ ഒരാൾ മേൽക്കൈയിലും ഒരാൾ എടുക്കുന്ന കൈയിലുമാണ് അതിനാൽ ഈ എൻജിഒകൾ ഈ ഏജൻസികൾ രംഗത്ത് വരുമ്പോൾ പല സമയത്തും അവർ ചെയ്യുന്നത് പ്രാദേശിക അറിവ് മനസ്സിലാക്കുക എന്നതാണ് ഈ വ്യവസ്ഥിതിയും ഈ പ്രത്യേക സാമൂഹിക വ്യവസ്ഥിതിയും വ്യവസ്ഥിതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് അവർ മനസ്സിലാക്കുന്നു അതിനാൽ സിസ്റ്റം എങ്ങനെ പരാജയപ്പെട്ടു വലിയ കൂട്ടായ സമ്മർദ്ദ സാഹചര്യങ്ങൾ ഉണ്ടായത് അവിടെയാണ് എന്നാൽ പിന്നീട് പല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവർ രക്ഷാപ്രവർത്തനത്തിലോ പുനരധിവാസ പദ്ധതികളിലോ വരുമ്പോൾ അവർ ദുരിതാശ്വാസ സംസ്കാരം പരിചിതമായ സംവിധാനങ്ങളെ നിരസിക്കാനും അനുകൂലിക്കാനും ശ്രമിക്കുന്നു അതിനാൽ അവർ ഒന്നുകിൽ അതിനെ ആശ്രയിക്കുന്നു ഒന്നുകിൽ അവർ ഇതിനകം നടപ്പിലാക്കിയതിനെയും ദുരിതാശ്വാസ സംസ്കാരത്തെയും കൂടുതൽ ആശ്രയിക്കുന്നു എന്നിരുന്നാലും അവർ പ്രാദേശിക സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു അവർ മനസ്സിലാക്കാനും പ്രാദേശിക പാരമ്പര്യങ്ങളെ തകർക്കാനും ശ്രമിക്കുന്നു എന്നാൽ പിന്നീട് പല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവർ രക്ഷാപ്രവർത്തനത്തിലോ പുനരധിവാസ പദ്ധതികളിലോ വരുമ്പോൾ അവർ ദുരിതാശ്വാസ സംസ്കാരം പരിചിതമായ സംവിധാനങ്ങളെ നിരസിക്കാനും അനുകൂലിക്കാനും ശ്രമിക്കുന്നു അതിനാൽ അവർ ഒന്നുകിൽ അതിനെ ആശ്രയിക്കുന്നു ഒന്നുകിൽ അവർ ഇതിനകം നടപ്പിലാക്കിയവയെ കൂടുതൽ ആശ്രയിക്കുന്നു പ്രാദേശിക സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദുരിതാശ്വാസ സംസ്കാരവും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പ്രാദേശിക പാരമ്പര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നു അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിസ്റ്റം പരാജയപ്പെട്ടുവെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവിടെയാണ് അവർ പരമ്പരാഗത നേതൃത്വത്തിലും സാമൂഹികവും മതപരവുമായ ക്രമത്തിന്റെ ശ്രേണിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന സമൂഹത്തെ ബാഹ്യ സ്വാധീനത്തിന് കൂടുതൽ സാധ്യതയുള്ളതാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില ഓപ്ഷനുകൾ അവർ മുമ്പ് ചെയ്തതിൽ നിന്ന് ഒന്നുകിൽ ഒരു റെഡിമെയ്ഡ് ഓപ്ഷനുമായാണ് വരുന്നത് അവർ നിങ്ങൾക്ക് ഇത് ഓപ്ഷനുകൾ നൽകുന്നു നിങ്ങൾ ഇതിലൊന്ന് എടുക്കാത്തതെന്താണ് ഭൂമിശാസ്ത്രജ്ഞയായ ഡോറിൻ മാസി സ്ഥലത്തെക്കുറിച്ച് അവൾ സംസാരിച്ചു ഒരു സാമൂഹിക നിർമ്മിതിയാണ് ഞങ്ങൾ സജീവമായി സ്ഥലങ്ങൾ നിർമ്മിക്കുന്നു സ്ഥലത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശയങ്ങൾ നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് സമാനമായ സന്ദർഭത്തിൽ ഒരു സ്ഥലത്തിന്റെ ദുർബലത ഒരു സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഡയലോഗ് നമുക്ക് ലിങ്ക് ചെയ്യാനാകില്ലേ നമ്മൾ ഉത്തരവാദിത്തമുള്ള ആളുകളായതിനാൽ ആ പ്രത്യേക സാഹചര്യത്തിൽ നാം എങ്ങനെയാണ് നമ്മെത്തന്നെ ദുർബലരാക്കുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എന്റെ സ്വന്തം പഠനത്തിലേക്ക് വരാം ഹുദ്ഹുദ് ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിലാണിത് അതിനാൽ ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശത്തുള്ള വിശാഖപട്ടണത്തിലെ ചില ഗ്രാമങ്ങൾ ഞാൻ സന്ദർശിക്കുകയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെ സന്ദർശിക്കുകയും ചെയ്തു കളക്ടറേറ്റുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റും മറ്റ് എൻജിഒകൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഏത് തരത്തിലുള്ള പദ്ധതികളാണ് അവർ ചെയ്യുന്നതെന്നും നാശനഷ്ടങ്ങളുടെ സ്ഥിതിവിവരക്കണക്കുകൾ എങ്ങനെയാണ് ശേഖരിച്ചതെന്നും നിങ്ങൾക്ക് അറിയാമോ അതിനാൽ ഈ റിപ്പോർട്ടുകളിൽ പലതും നമ്മൾ നാശനഷ്ടങ്ങളുടെ സ്ഥിതിവിവരക്കണക്കുകളെക്കുറിച്ചാണോ എത്രത്തോളം ജീവൻ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എത്രമാത്രം വസ്തുവകകൾക്ക് നാശനഷ്ടമുണ്ടായി അവ സംഖ്യകളിലേക്ക് ചുരുങ്ങുന്നു സമൂഹത്തിന്റെ ഉപരിതല ഘടനകളിലേക്ക് ചുരുങ്ങുന്നു അവ പലപ്പോഴും സ്ഥിതിവിവരക്കണക്കുകളിലേക്ക് ചുരുങ്ങുന്നു കണക്കാക്കിയ വിളനാശം ഇത്രയധികം 50 ത്തിലധികം വിസ്തീർണ്ണം ഒഴിപ്പിച്ച ആളുകളുടെ എണ്ണം ബാധിച്ച ഗ്രാമങ്ങളുടെ എണ്ണം അതിനാൽ അവയെല്ലാം അക്കങ്ങളിലേക്ക് ചുരുക്കിയിരിക്കുന്നു എന്നാൽ അവിടെയാണ് സാമ്പത്തിക വശവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന് എത്ര ഫണ്ട് ആവശ്യമാണ് അതിന് എത്ര നിക്ഷേപം ആവശ്യമാണ് എന്നിങ്ങനെ നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ ഭീമുനിപട്ടണം എന്നറിയപ്പെടുന്ന ചില ഗ്രാമങ്ങളാണിവ പരമ്പരാഗത ജീവിതരീതികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളും തീരപ്രദേശങ്ങളും കാരണം അവയ്ക്ക് ഓല മേഞ്ഞ മേൽക്കൂര സംവിധാനങ്ങളുണ്ട് അതിനാൽ കാലാവസ്ഥയെക്കുറിച്ചുള്ള ഈ തദ്ദേശീയ ധാരണയുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു പ്രാദേശിക കാലാവസ്ഥാ സാഹചര്യങ്ങളും അവരുടെ ജീവിതരീതിയും മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു അത് എത്രത്തോളം പ്രവർത്തനപരമായി പ്രവർത്തിക്കുന്നു എന്നാൽ ആധുനിക നിർമ്മാണങ്ങൾ പരിശോധിച്ചാൽ ഡ്രെയിനേജ് പോലും ഇതുപോലെ ഒറ്റപ്പെട്ടതായി കാണാം അതായത് ഏജൻസികൾ ഒരു വീട്ടിൽ മാത്രമാണ് നോക്കുന്നത് എന്നാൽ കാര്യങ്ങളുടെ ഒരു വ്യവസ്ഥ അങ്ങനെയല്ല സെറ്റിൽമെന്റ് എന്നത് ഒരു കൂട്ടം വീടുകൾ മാത്രമല്ല അത് വെറുമൊരു കാര്യമല്ല അത് ഒരു കാര്യ സംവിധാനമാണ് ഇതിന് റോഡ് പാളി ശൃംഖല ഡ്രെയിനേജ് സംവിധാനങ്ങൾ വൈദ്യുതി വിതരണം ജലവിതരണം അങ്ങനെ എല്ലാം ഒരുമിച്ച് ഒരു ആവാസവ്യവസ്ഥ ഉണ്ടാക്കുന്നു എന്നാൽ ഇവിടെ ഒരു വ്യക്തിഗത വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഒരു വീട് നിർമ്മിക്കുന്നു എൻജിഒ വന്ന് വീട് പണിയുമ്പോൾ നിങ്ങൾ പോകും അതാണ് അടുത്തത് അത് അയൽക്കാരനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് അതിനാൽ ആ തലത്തിൽ നമുക്ക് നഷ്ടമായത് അവിടെയാണ് പല ഗ്രാമങ്ങളിലും ഈ തകർന്ന വീടുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അതെ അത് ഭാഗികമായോ പൂർണ്ണമായോ കേടായതായി അവർ കണക്കാക്കുന്നു എന്നാൽ പിന്നീട് ഇവ മറ്റൊരിടത്തേക്ക് മാറിയിരിക്കാം അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്നതിനാൽ അവ ഒറ്റപ്പെട്ടു എന്നാൽ ഇവയ്ക്ക് എന്ത് സംഭവിച്ചു അങ്ങനെ 10 വർഷത്തിനുശേഷവും നിങ്ങൾ എപ്പോഴെങ്കിലും ലാത്തൂർ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലോ സുനാമിയിലോ പോയാൽ പോലും നിരവധി തകർന്ന ഗ്രാമങ്ങൾ അങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഒരാൾക്ക് ഈ അവശിഷ്ടങ്ങൾ എങ്ങനെ വൃത്തിയാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഈ വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്താ പ്രക്രിയയില്ല അതിനാൽ ഇവയെല്ലാം ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിരവധി വശങ്ങളാണ് അതിനാൽ നിങ്ങൾക്ക് ഗ്രാമത്തിൽ മുഴുവൻ കാണാൻ കഴിയുന്നത് അവശിഷ്ടങ്ങളുടെ കഷണങ്ങളാണ് ചുഴലിക്കാറ്റിൽ കേടുപാടുകൾ സംഭവിച്ചതോ തകർന്ന വീടോ ഉള്ള സ്ഥലത്തു നിങ്ങൾ ഒരു പുതിയ വീട് പണിയുകയാണ് അതിനാൽ പഴയ ഭാഗത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നാൽ എന്താണ് നിർമ്മിക്കുന്നത് എന്നത് മാത്രമാണ് അവർ നോക്കുന്നത് ഉദാഹരണത്തിന് ഇത് ഒരു കൂട്ടുകുടുംബ വീടായ ഒരു വീടിന്റെയും ഈ പാവപ്പെട്ട പല വീടുകളുടെയും കഥയാണ് അവരുടെ വീടും മേൽക്കൂരയും പുനർനിർമിക്കാൻ സർക്കാർ സഹായമായി നൽകിയത് 5000 രൂപ മാത്രമാണ് 3 കുടുംബങ്ങൾ ഇപ്പോഴും ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ വീടുകളിൽ അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു അതെ ഞങ്ങൾ കൂടുതലും ഇവിടെയാണ് ഉറങ്ങുന്നത് തീരപ്രദേശമായതിനാൽ ഞങ്ങൾക്ക് അവിടെ കിടക്കാം കാരണം എല്ലാ നിയമങ്ങളും പാലിക്കാൻ സർക്കാർ നൽകുന്ന ഈ 5000 പര്യാപ്തമായിരുന്നില്ല അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അയൽക്കാരുമായി ചർച്ച നടത്തുകയും അവർ അവരുടെ വരാന്തകളിൽ രാത്രി ഉറങ്ങുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ സംഖ്യകളിലേക്ക് ചുരുങ്ങുമ്പോൾ അല്ലെങ്കിൽ നൽകേണ്ട 5000 രൂപയിലോ ഒരു പ്രത്യേക തുകയിലോ മാത്രമായി ചുരുങ്ങുമ്പോൾ നിങ്ങൾ അത് നിരീക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നുഅവർ തനിയെ കെട്ടിപ്പടുക്കാൻ പോകുന്നു രണ്ട് വർഷത്തിന് ശേഷം ഇത് അങ്ങനെയാണ് അതിനാൽ ഇവിടെയാണ് ഒരാൾ നോക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എത്രമാത്രം നൽകുന്നു എന്നതല്ല അവർ എത്രമാത്രം ചെയ്തു എന്താണ് ചെയ്യേണ്ടത് എന്നതിലാണ് ഇവിടെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പുനർമൂല്യനിർണയം നടത്തേണ്ടത് വ്യത്യസ്ത കോർപ്പറേറ്റ് ഏജൻസികൾ വരുന്നതു പോലെ മറ്റൊരു സംഭവമുണ്ട് ഉദാഹരണത്തിന് ഇൻഫോസിസ് ഫൌണ്ടേഷന്റെ ഒരു പ്രോജക്റ്റാണിത് അവിടെ അവരുടെ കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി അവർ ഭവന പരിഹാരങ്ങൾ നല്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഈ ഭവനം നോക്കുമ്പോൾ അവർക്ക് വളരെ നല്ല റോഡ് ശൃംഖലയുണ്ട് അവർക്ക് വളരെ നല്ല വീടുകളുണ്ട് ഇഷ്ടികയും കോൺക്രീറ്റ് വീടുകളും ഉണ്ട് ഇത് 2 3 കിലോമീറ്റർ അകലെയാണ് കരയിൽ നിന്ന് 3 4 കിലോമീറ്റർ തീരത്തേക്ക് അകലമുണ്ട് എന്നാൽ പിന്നീട് ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ അധികം ആളുകൾ ഈ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷേ ഇപ്പോൾ ആളുകൾ എടുത്തിട്ടുണ്ടാകാം പക്ഷേ ആ സമയത്ത് ഒരാൾ പോലും ഈ വീടുകളിൽ താമസിച്ചിരുന്നില്ല ഞാൻ അവരുമായി ചില അഭിമുഖങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയോട് ചോദിച്ചു ഞങ്ങളുടെ മത്സ്യബന്ധന ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമാണെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പ്രത്യേക വീട് ഇഷ്ടമാണെങ്കിലും കടൽത്തീരത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമല്ല അതിനാൽ ക്രമേണ പ്രാദേശിക രാഷ്ട്രീയക്കാരും അവരുടെ ശൃംഖലകളും എങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ഈ വീടുകൾ പിടിച്ചെടുക്കും എന്നതും അവർ ആശങ്കാകുലരാണ് അതിനാൽ മത്സ്യത്തൊഴിലാളിക്ക് വ്യത്യസ്തമായ ഒരു സാംസ്കാരിക ആവശ്യമുണ്ടെങ്കിൽ യൂണിഫോമിനെക്കുറിച്ചും സ്റ്റാൻഡേർഡ് ഫോമുകളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ജിബെലിനയ്ക്ക് സമാനമാണ് അവരുടെ സാംസ്കാരിക ആവശ്യങ്ങൾ ഉപജീവന ആവശ്യങ്ങൾ എന്നിവ കാരണം ഇത് പലപ്പോഴും സമൂഹങ്ങൾ നിരസിക്കുന്നത് കാണാം അവിടെയാണ് വീടിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്നാൽ വീട് ഒരു ഭാവനയാണ് വീട് അല്ലെങ്കിൽ ഒരു ചെറിയ വാസസ്ഥലം ഘടനയെ വിവരിക്കുന്നു എന്തെന്നാൽ വീട് അതിനുള്ളിൽ ചെലവഴിച്ച ജീവിതത്തിന്റെ പ്രതീകമാണ് വീട് എന്നത് സാമൂഹിക വ്യവസ്ഥയുടെ ആഴത്തിലുള്ള ഘടനകളുടെയും കുടുംബത്തിന്റെ അത് ഉൾക്കൊള്ളുന്ന ഗാർഹിക ഇടവുമായുള്ള ബന്ധത്തിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന്റെ സൂചനയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വീടിന് വെറും നാല് ചുവരുകൾ മാത്രമല്ല ഇത് കുടുംബത്തെക്കുറിച്ചാണ് അത് അവരുടെ സാമൂഹിക ബന്ധത്തെക്കുറിച്ചാണ് സാമൂഹിക ഇടം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു ആധുനിക ധാരണയിലും ഗ്രഹിച്ച ഇടത്തിലും ആസൂത്രകർക്കോ അടിത്തറയ്ക്കോ ഇതുപോലെയുള്ള കാഴ്ചപ്പാടുകൾ ഉള്ള സങ്കൽപ്പിച്ച സ്ഥലത്ത് നിന്ന് ഹെൻറി ലെഫെബ്വ്രെ സംസാരിക്കുന്നു അവർ അത് എങ്ങനെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം താമസിക്കുന്ന ഇടം താമസ സൌകര്യത്തേക്കാൾ ദൈർഘ്യമേറിയ ക്രമീകരണങ്ങളോടെ വരുന്നു പതിവ് രീതികൾ ഈ സ്ഥലത്തെ വ്യത്യസ്തമായ അർത്ഥങ്ങളോടെ എങ്ങനെ സജ്ജമാക്കുന്നു സാംസ്കാരിക മാനങ്ങളോടെ ഈ സ്ഥലങ്ങളെ അവർ എങ്ങനെ പ്രകടിപ്പിക്കുന്നു അവിടെയാണ് ജീവിച്ചിരിക്കുന്ന ഇടം അതിൽ വരുന്നത് മൈക്കൽ ലിയോൺസ് തിയോ ഷിൽഡർമാൻ കാമിലോ ബോന Camillo Boana's എന്നിവരുടെ സൃഷ്ടികൾ എങ്ങനെ മികച്ച രീതിയിൽ നിർമ്മിക്കുന്നതിന്റെ ആദ്യ പതിപ്പിൽ സംഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് പെറു കൊളംബിയ തുർക്കി തുടങ്ങി മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിവിധ പണ്ഡിതന്മാരുടെ സമാഹരിച്ച ചില കൃതികൾ അവർ എങ്ങനെ കൊണ്ടുവന്നു അതിനാൽ പുനർനിർമ്മാണ പ്രക്രിയകളിൽ പൊതുവെ പിന്തുടരുന്ന മാതൃക കൂട്ടിച്ചേർക്കലിന്റെ ഒരു വശമാണ് അവർ ചെയ്യുന്നത് പോലെ ചിലപ്പോൾ NGO കൾ വഴിയാണ് സമീപിക്കുന്നത് ഈ എൻജിഒ സ്പോൺസർ ചെയ്യുന്ന 5 6 വീടുകൾ ഉണ്ട് മറ്റൊരു 5 6 വീടുകൾ ഈ എൻജിഒ സ്പോൺസർ ചെയ്യും അതിനാൽ ആ സമയം എൻജിഒ ആ വീട് മാത്രം നോക്കുന്നു അവർ ഒരു വീടിനെ കുറിച്ച് ഒരു സമയം ഒരു കുടുംബത്തെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് കാരണം അവരുടെ കരാർ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 വീടുകൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് അതേസമയം ഗുണന മാതൃകയിൽ ഒരു വീട് മുതൽ 100 വീട് ആയി അതിനാൽ ഇവിടെയാണ് ഏജൻസി നയിക്കുന്ന നിർമ്മാണം അതിനാൽ അവർ ചെയ്യുന്നത് ഒരു പ്രത്യേക വീടിന്റെ സ്കീമാറ്റിക് അല്ലെങ്കിൽ ഒരു മാതൃക വികസിപ്പിക്കുകയും അത് ഒരു ടൌൺഷിപ്പ് ആണെങ്കിലും അത് ഒരു ക്ലസ്റ്ററാണെങ്കിലും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു ആ രീതിയിൽ അവർ ഒരു യൂണിഫോമായും അതിന്റെ സ്റ്റാൻഡേർഡ് മോഡലുകളായും വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് മിക്കവാറും ഒരു ഏജൻസി പ്രവർത്തിക്കുന്ന പ്രക്രിയയാണ് അതേസമയം ഇത് അടിസ്ഥാനപരമായി ഒരു ക്ലസ്റ്ററാണ് വികസിപ്പിച്ചെടുത്തത് അത് മുഴുവൻ സെറ്റിൽമെന്റിലും ആവർത്തിക്കപ്പെടും എന്നാൽ ഇവിടെയും ഇതിലും ഏജൻസി പ്രവർത്തിക്കുന്ന പ്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ബഹിരാകാശ ആവശ്യകതകൾ അതിനോടുള്ള സാമുദായിക പ്രതികരണം ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യ വിശകലനം ദുരന്തത്തിന് മുമ്പും ദുരന്തത്തിന് ശേഷവും അത് എങ്ങനെ മാറിയിരിക്കുന്നു എന്നതിന്റെ കാര്യത്തിൽ ഏജൻസി ഒരുപാട് വ്യത്യസ്ത വശങ്ങൾ പരിഗണിക്കുന്നില്ല ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ ദുരന്തത്തിൽ നഷ്ടപ്പെടുന്നു അവൾക്ക് എന്ത് സംഭവിക്കുന്നു അവൾക്ക് ഏത് തരത്തിലുള്ള വീടാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ധാരണ യഥാർത്ഥത്തിൽ ഈ പ്രക്രിയയ്ക്കുള്ളിൽ പോകുന്നില്ല കാരണം ഇത് മോഡലിന് മാത്രമേ എടുക്കൂ 100 വീടുകൾക്ക് ഇത് എങ്ങനെ ആവർത്തിക്കുന്നു ഓരോ അയൽപക്കത്തെയും ഒരു കൂട്ടം കുടുംബങ്ങളെയും മനസ്സിലാക്കുന്നതിനുള്ള ദീർഘമായ ഇടപഴകൽ ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് സമയമെടുക്കും പക്ഷേ ഇതിലെ പ്രശ്നം ഇടത്തരം മർദ്ദം ആയിരിക്കും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും സ്ഥാപനപരമായ സമ്മർദ്ദം ഉണ്ടാകും അതിനാൽ ഈ വശം കൂട്ടിച്ചേർക്കുന്ന നിരവധി നിയന്ത്രണങ്ങൾ ഉണ്ടാകും കരാറുകാരൻ നയിക്കുന്ന രണ്ടാമത്തെ മോഡലിൽ അവർ ചെയ്യുന്നത് പാർട്സ് സമീപനത്തിന്റെ ഒരു കിറ്റ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് അവർ മതിലിംഗ് മെറ്റീരിയൽ അടിത്തറ റൂഫിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടെംപ്ലേറ്റ് വികസിപ്പിക്കുന്നു അതിനാൽ അവർ ഒരു ടെംപ്ലേറ്റ് നൽകാൻ ശ്രമിക്കുന്നു തുടർന്ന് അതിനുള്ളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടു അതിനാൽ ആ രീതിയിൽ കിറ്റ് നൽകിയിരിക്കുന്നു കൂടാതെ സ്റ്റാൻഡേർഡ് ഡിസൈൻ പ്രക്രിയയിൽ ഒരു ചെറിയ വഴക്കമുണ്ട് അതേസമയം അപേക്ഷയുടെ രണ്ടാമത്തെ പ്രക്രിയയിൽ 2000 വീടുകൾക്കായി 2000 ഡിസൈനുകളിൽ ബെന്നി കുര്യാക്കോസ് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനാൽ അവിടെയാണ് കമ്മ്യൂണിറ്റിയുമായി ആഴത്തിലുള്ള ഇടപഴകൽ ആവശ്യമായി വരുന്നത് അവർ യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റിയുമായി ഇടപഴകുകയും വേണം ഒടുവിൽ അവർ 7 മുതൽ 8 വരെ ഇതരമാർഗങ്ങൾ വികസിപ്പിച്ചെടുത്തു പിന്നെയും ആർക്കിടെക്റ്റുകളുമായുള്ള പരസ്പരം ആശയവിനിമയം അനുവദിച്ചു അതുകൊണ്ടാണ് മറ്റ് അന്തിമ പരിഷ്കാരങ്ങൾ പോലും വികസിപ്പിച്ചെടുത്തത് ഇതിന് വളരെ സമഗ്രമായ ഒരു അടിത്തട്ടിലുള്ള പ്രക്രിയ ആവശ്യമാണ് സാംസ്കാരിക പ്രശ്നങ്ങളും ഡിസൈനിംഗിന്റെ വഴികൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ അവഗണിക്കപ്പെട്ടുവെന്നും അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നും ഭവന രൂപകൽപ്പനയുടെ വിവിധ മോഡലുകൾ എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി